നമസ്കാരം 'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി' എന്ന കോഴ്സിലെ ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം ഭൌതികമായ ഘടകങ്ങൾ മൂലകോശങ്ങളുടെ ഗതി എപ്രകാരം നിർണ്ണയിക്കുന്നു എന്ന് നാം ഇക്കഴിഞ്ഞ ലെക്ച്ചറിൽ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി ഹ്യൂമൻ മീസെൻകൈമൽ മൂലകോശങ്ങളെ താഴ്ന്നതും ഉയർന്നതുമായ രണ്ട് വ്യത്യസ്ത സാന്ദ്രതകളിൽ പ്ലേറ്റ് ചെയ്യുന്നതിനെ ആധാരമാക്കിയുള്ള ഒരു പ്രബന്ധം നാം അടുത്തിടെ ചർച്ച ചെയ്യുകയുണ്ടായി കുറഞ്ഞ സാന്ദ്രതയിൽ കോശങ്ങൾ അഡിപോജെനിക് ലീനിയേജിലേക്ക് ഡിഫറെൻഷിയേറ്റ് ചെയ്യാനുള്ള പ്രവണത ഏറെയാണ് എന്നാൽ സീഡിങ് ഡെന്സിറ്റിയുടെ നിരക്കിൽ വർദ്ധനവുണ്ടായാൽ അവ ക്രമേണ ഓസ്റ്റിയോജെനിക് ലീനിയേജിലേക്ക് ചുവടുമാറുന്നതായി നമുക്ക് ദൃശ്യമാകും എന്നതാണ് വസ്തുത ഡിഫറെൻസിയേഷന്റെ അന്തിമ ഘട്ടത്തിൽ ഏതാനും ചില ലയനസൂചകങ്ങൾ നാം ഇതിലേക്ക് ചേർക്കുകയുണ്ടായിരുന്നു സാന്ദ്രതയിൽ ആശ്രിതമായ മേല്പറഞ്ഞ പ്രഭാവം എന്തുകൊണ്ട് പ്രകടമാകുന്നു എന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി സാന്ദ്രത അഥവാ സീഡിങ് ഡെന്സിറ്റി എന്ന ഘടകം ഒരു പക്ഷെ കോശങ്ങളുടെ ആകൃതിയെ പരോക്ഷമായി സ്വാധീനിക്കുന്നുണ്ടാകാം എന്ന അനുമാനത്തിലാണ് ഗവേഷകർ ചെന്നെത്തിയത് ഇത് പരീക്ഷിക്കുന്നതിനായി വലുതും ചെറുതുമായ ഏതാനും ചില പാറ്റേണുകൾ അവർ ഉപയോഗപ്പെടുത്തുകയുണ്ടായി ഇവയിൽ നിരത്തുമ്പോൾ നിയതമായ ഫോക്കൽ എഡ്ഹെഷനുകളും സുദൃഢമായ സ്ട്രെസ്സ്ഫൈബറുകളുമുള്ള കോശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു എന്നതാണ് വസ്തുത ഐലൻഡിന്റെ വലുപ്പം കുറയുമ്പോൾ അഡിപോജെനിക് ഡിഫറെൻസിയേഷനും എന്നാൽ വലുപ്പത്തിൽ വർദ്ധനവുണ്ടാകുമ്പോൾ ഓസ്റ്റിയോജെനിക് ഡിഫറെൻസിയേഷനും ദൃശ്യമാകും എന്ന ഹൈപ്പോതെസിസുമായി പൊരുത്തപ്പെടുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ തന്നെയാണ് ഗവേഷകർക്ക് കണ്ടെത്താനായത് Y27632 എന്ന ROCK അഥവാ Rho കൈനേസ് ഇൻഹിബിറ്റർ പ്രയോഗിച്ച വലുപ്പമേറിയ ഐലൻഡിലെ കോശങ്ങൾ അഡിപോജെനിക് ഡിഫറെൻസിയേഷൻ കാഴ്ചവെക്കുന്നതായി ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി മേല്പറഞ്ഞ ഡിഫറെൻസിയേഷനെ യഥാവിധം നിയന്ത്രിക്കുന്ന രണ്ട് ഘടകങ്ങൾ നമുക്ക് മുൻപിൽ നിലവിലുണ്ട് ഒന്ന് കോശങ്ങളുടെ ആകൃതിയാണ് കോശങ്ങളുടെ സാന്ദ്രത അവയുടെ ആകൃതിയെ നിർണ്ണയിക്കുന്നതിൽ പരോക്ഷമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത ആക്റ്റോമയോസിൻ കൺട്രാക്ടയിലിറ്റിയെ ആന്തരികമായി ഉത്തേജിപ്പിക്കുന്ന ലയനസൂചകങ്ങളുടെ സാന്നിധ്യമാണ് മറ്റൊരു സുപ്രധാന ഘടകം ഈ കാണുന്ന ടെൻഷനെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അത് കോശങ്ങളിൽ അഡിപോജെനിക് ഡിഫറെൻസിയേഷൻ ഉടലെടുക്കാൻ കാരണമാകുന്നു എന്നാൽ മേല്പറഞ്ഞ ടെൻഷന്റെ നിരക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഓസ്റ്റിയോജെനിക് ഡിഫറെൻസിയേഷൻ എന്ന പ്രക്രിയ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും കോശങ്ങളുടെ ആകൃതി പോലുള്ള ഭൌതികമായ ഘടകങ്ങൾ മൂലകോശങ്ങളുടെ ഡിഫറെൻസിയേഷൻ ഫേറ്റ് നിർണ്ണയിക്കുന്നതിൽ വ്യക്തമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് മേല്പറഞ്ഞ പഠനം സൂചിപ്പിക്കുന്നത് ഈ കാണുന്ന പഠനത്തിൽ വിവിധ ആകൃതികളിലും വലുപ്പത്തിലുമുള്ള ഐലൻഡുകളാണ് ഗവേഷകർ ഉപയോഗപ്പെടുത്തിയത് ഇതിൽ വൃത്താകൃതിയിലുള്ളവയും ദീർഘചതുരാകൃതിയിലുള്ളവയും ഉൾപ്പെട്ടിട്ടുണ്ട് അവർ നിരീക്ഷിച്ച് കണ്ടെത്തിയ വ്യത്യാസം ഒരു പക്ഷെ വ്യത്യസ്തതരം ആകൃതികൾ ഉപയോഗപ്പെടുത്തുന്നത് മൂലം ഉടലെടുത്തതാകാനുള്ള സാധ്യത ഏറെയാണ് സമാനവ്യാപ്തിയുള്ള MSC കോശങ്ങളുടെ ഗതിയിൽ ആകൃതിയ്ക്ക് അനുരൂപമായി എങ്ങനെയായിരിക്കും മാറ്റങ്ങൾ പ്രകടമാകുന്നത് ഇതിന് ഉത്തരം കണ്ടെത്താനായി നമുക്ക് മറ്റൊരു PNAS പ്രബന്ധം പഠനത്തിന്റെ ഭാഗമായി കണക്കിലെടുക്കേണ്ടതുണ്ട് പ്രസ്തുത പരീക്ഷണത്തിൽ ഗവേഷകർ വ്യത്യസ്ത പാറ്റേണുകൾ ഉപയോഗപ്പെടുത്തുകയുണ്ടായി ഉദാഹരണത്തിന് ദീർഘ ചതുരാകൃതിയിലുള്ള ഒരു പാറ്റേൺ തിരഞ്ഞെടുക്കുകയും ക്രമേണ അതിന്റെ അനുപാതത്തിൽ നിങ്ങൾ മാറ്റം വരുത്തുകയാണെന്നും കരുതുക ഇവിടെ ആസ്പെക്ട് റേഷ്യോയിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിലും അവയുടെ വലുപ്പത്തിലോ അല്ലെങ്കിൽ വ്യാപ്തിയിലോ വ്യതിയാനം സംഭവിക്കുന്നില്ല എന്നതാണ് വസ്തുത ഗവേഷകർ തിരഞ്ഞെടുത്ത ഒരു കൂട്ടം ജ്യാമിതിയ ആകൃതികൾ ഇവയെല്ലാമാണ് ഇത് കൂടാതെ അവർ ഒരു പെന്റഗൺ ആകൃതി സൃഷ്ടിക്കുകയും അതിൽ നിന്നും രണ്ട് വ്യത്യസ്ത ജ്യാമിതികൾ രൂപപ്പെടുത്തുകയുമുണ്ടായി ഇതിൽ ഒന്നിന്റെ രൂപം അല്പം ഉരുട്ടി ഒരു നക്ഷത്രാകൃതിയിലേക്ക് അവർ ക്രമീകരിക്കുകയുണ്ടായി ഇപ്പോൾ നമുക്ക് മുൻപിൽ ഒരു ഫ്ലവർ ഒരു പെന്റഗൺ പിന്നെ ഒരു സ്റ്റാർ ആകൃതിയിൽ മൂന്ന് വ്യത്യസ്ത ജ്യാമിതിയ രൂപങ്ങൾ നിലവിലുണ്ട് മേല്പറഞ്ഞ ഈ രണ്ട് സാഹചര്യങ്ങളിലും ആകൃതികൾ വ്യത്യസ്തമാണെങ്കിലും അവയുടെ വിസ്തീർണ്ണം സമാനായിരിക്കും എന്നതാണ് വസ്തുത ഇതിനെ നാം ആസ്പെക്ട് റേഷ്യോയുടെ പ്രവർത്തനമായി രേഖപ്പെടുത്തുകയാണെങ്കിൽ മേല്പറഞ്ഞ അനുപാതം കുറഞ്ഞ നിരക്കിലേക്ക് താഴുമ്പോൾ ഒരു സമ്മിശ്ര ഗതിയാണ് നമുക്ക് ദൃശ്യമാകുന്നത് മേല്പറഞ്ഞ സന്ദർഭത്തിൽ ഇത് അഡിപോജെനിക് ഡിഫറെൻസിയേഷനെയും ഇത് ഓസ്റ്റിയോജെനിക് ഡിഫറെൻസിയേഷനെയുമാണ് സൂചിപ്പിക്കുന്നത് ആസ്പെക്ട് റേഷ്യോ വർദ്ധിപ്പിക്കുന്നതിലൂടെ കോശങ്ങൾ ഓസ്റ്റിയോജെനിക് ലീനിയേജ് പിന്തുടരുന്നതായി ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി മേല്പറഞ്ഞ ഫ്ലവർ പെന്റഗൺ സ്റ്റാർ എന്നീ പാറ്റേണുകളിലും ഇത് തന്നെയാണ് ദൃശ്യമാകുന്നത് അഡിപോജെനിക് ഡിഫറെൻസിയേഷന്റെ കാര്യത്തിലും സമാനമായ പ്രവണത തന്നെയാണ് ഗവേഷകർക്ക് നിരീക്ഷിക്കാൻ സാധിച്ചത് ഇവിടെ പ്രകടമാകുന്ന ചില മാറ്റങ്ങളുടെ പരിണിതഫലമായാണ് ആത്യന്തികമായി വന്നുചേരുന്ന വിധിയിലും ഗണ്യമായ പരിവർത്തനങ്ങൾ ദൃശ്യമാകുന്നത് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മറ്റൊരു വിഷയമെന്തെന്നാൽ ഇതൊരു സമ്മിശ്ര വിധിയാണ് എന്നുള്ളതാണ് ഇവിടെ നൂറ് ശതമാനം അഡിപോജെനിക് ഡിഫറെൻസിയേഷനോ അല്ലെങ്കിൽ നൂറ് ശതമാനം ഓസ്റ്റിയോജെനിക് ഡിഫറെൻസിയേഷനോ ദൃശ്യമാകുന്നില്ല ഇതിന്റെ അടിസ്ഥാന വിവരങ്ങൾ ലഭ്യമാകുവാൻ ഗവേഷകർ ഫ്ലവർ പെന്റഗൺ സ്റ്റാർ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്തയിനം പാറ്റേണുകൾ നിർമ്മിക്കുകയുണ്ടായി ശേഷം ഫ്ലവർ സ്റ്റാർ എന്നീ പാറ്റേണുകൾ തമ്മിൽ താരതമ്യം ചെയ്ത് സൈറ്റോസ്കെലിറ്റൻ ഫോക്കൽ എഡ്ഹെഷൻ എന്നീ ഘടകങ്ങളുടെ ഘടനയിൽ പ്രകടമായ രീതിയിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ എന്നവർ നിരീക്ഷിക്കുകയുണ്ടായി മേല്പറഞ്ഞ ഫ്ലവർ പാറ്റേണുകളെ ആസ്പദമാക്കി ഒരു ഹീറ്റ് മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഇവയുടെ അരികുകളിൽ വർദ്ധിത നിരക്കിൽ കാണപ്പെടുന്ന ആക്റ്റിൻ സിഗ്നലുകളെയാണ് അക്ഷരാർത്ഥത്തിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നക്ഷത്ര ആകൃതിയിൽ ദൃശ്യമാകുന്ന സ്റ്റാർ പാറ്റേണുകളിൽ ആക്റ്റിൻ സിഗ്നലുകളും ഫോക്കൽ എഡ്ഹെഷനുകളും വൃത്തപരിധിയിലേക്ക് മാത്രം ചുരുങ്ങി നില്ക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത എന്നാൽ മേല്പറഞ്ഞ ഫ്ലവേർഡ് ജ്യോമെട്രിയിൽ ഇത്തരമൊരു നിരീക്ഷണമാണ് ഗവേഷകർ നടത്തിയത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ പച്ച നിറത്തിൽ കാണപ്പെടുന്നത് വിൻക്യുലിൻ അഥവാ ഫോക്കൽ എഡ്ഹെഷനും എന്നാൽ ചുവപ്പ് നിറത്തിലുള്ളത് ആക്റ്റിനുമാണ് നേരിയ കർവേച്ചറോട് കൂടിയ ഇത്തരമൊരു രീതിയിലാണ് ഗവേഷകർ നക്ഷത്രാകൃതിയിലുള്ള ഐലൻഡ് രൂപപ്പെടുത്തിയത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇവയിൽ കാണപ്പെടുന്ന ഫോക്കൽ എഡ്ഹെഷനുകൾ കൂടുതൽ പ്രബലവും സ്ട്രെസ്സ്ഫൈബറുകളുടെ സിഗ്നൽ അതീവശക്തമായിരിക്കുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് സൈറ്റോസ്കെലിറ്റന്റെയും ഫോക്കൽ എഡ്ഹെഷന്റെയും ഘടനയുമായി ഡിഫറെൻസിയേഷൻ പ്രക്രിയയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട് എന്നതാണ് വസ്തുത സ്റ്റാർ പാറ്റേണിൽ ധാരാളം സ്ട്രെസ്സ്ഫൈബറുകൾ ഉള്ളതിനാൽ തന്നെ അവയിൽ ഓസ്റ്റിയോജെനിക് ഡിഫറെൻസിയേഷൻ പ്രകടമാകാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ ഫ്ലവർ പാറ്റേണിൽ അഡിപോജെനിക് ഡിഫറെൻസിയേഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയ്ക്കാണ് ഏറെ മുൻഗണനയുള്ളത് വർദ്ധിതനിരക്കിലുള്ള ടെൻഷൻ ഓസ്റ്റിയോജെനിക് ഡിഫറെൻസിയേഷനെ പ്രേരിപ്പിക്കുന്ന ഒരു സുപ്രധാന ഘടകമാണ് ഫ്ലവർ പാറ്റേണിൽ ക്രമേണ താഴ്ന്ന നിരക്കിലുള്ള ടെൻഷനും സ്ട്രെസ്സ്ഫൈബറുകളുടെ സഞ്ചയത്തിന്റെ തോത് തീർത്തും ശുഷ്കവുമാണ് എന്നാൽ സ്റ്റാർ പാറ്റേണിന്റെ കാര്യത്തിൽ അധിക തോതിൽ കാണപ്പെടുന്ന സ്ട്രെസ്സ്ഫൈബറുകളും പ്രബലമായ ഫോക്കൽ എഡ്ഹെഷനുകളും ഓസ്റ്റിയോജെനിക് ഡിഫറെൻസിയേഷന് പ്രേരകമാകുന്നു എന്നതാണ് വസ്തുത ചുരുക്കിപ്പറഞ്ഞാൽ മൂലകോശങ്ങളുടെ ആകൃതി അവയുടെ വിധിനിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന സ്ഥിതീകരണമാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് ഇവ കൂടാതെ മറ്റ് ഭൌതിക സൂചകങ്ങളെ കുറിച്ചും നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു സ്റ്റാർ ഫ്ലവർ എന്നിങ്ങനെയുള്ള ആകൃതികളിൽ കോശങ്ങൾ രൂപകൽപന ചെയ്യാമെങ്കിലും സ്വാഭാവികമായ ഇൻ വൈവോ സാഹചര്യങ്ങളിൽ ഇത്തരം ആകൃതികളിൽ അവ കാണപ്പെടാറില്ല എന്നതാണ് വാസ്തവം കൂടാതെ മൂലകോശങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നതിൽ വ്യക്തമായ പങ്ക് വഹിക്കുന്ന മറ്റൊരു സുപ്രധാന ഘടകം കോശത്തിന്റെ ദൃഢതയാണ് മസ്തിഷ്കം മൃദുവാണെങ്കിലും അവ ദ്രവ്യാവസ്ഥയിലുള്ള രക്തത്തിനെക്കാൾ ദൃഢമാണെന്നത് നമുക്ക് അറിയാവുന്ന വസ്തുതയാണ് എന്നാൽ പേശിയിൽ കാണപ്പെടുന്ന കലകൾ ഇവയെക്കാൾ ഏറെ കടുപ്പമുള്ളവയാണ് പക്ഷെ ദൃഢതയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിലകൊള്ളുന്നത് അസ്ഥി കോശങ്ങൾ തന്നെയാണ് ഒരു സ്റ്റിഫ്നെസ്സ് സ്കെയിലിൽ ഞാൻ ഇവയെ രേഖപ്പെടുത്തുകയാണെങ്കിൽ ആദ്യം മസ്തിഷ്കം പിന്നീട് പേശി ശേഷം അസ്ഥി എന്ന നിലയിലാണ് അവ അണിനിരക്കുക ഇവയ്ക്കെല്ലാം നിയതമായ മെക്കാനിക്കൽ സവിശേഷതകളുമുണ്ട് മേല്പറഞ്ഞ ഇനങ്ങളിൽ താരതമ്യേന അതിമൃദുലമായ മസ്തിഷ്കം സ്റ്റിഫ്നെസ്സ് സ്കെയിലിൽ ഏതാണ്ട് 1 kPa ന് തുല്യമായ നിരക്കാണ് രേഖപ്പെടുത്തുന്നത് പേശിക്ക് 12 kPa എന്ന മിതമായ നിരക്കിലാണ് ദൃഢത കാണപ്പെടുന്നത് അസ്ഥി കോശങ്ങളിൽ 100 kPa എന്ന കണക്കിൽ സ്റ്റിഫ്നെസ്സ് ഓർഡറുള്ള കൊളാജെനസ് അസ്ഥികളാണ് ഏറെ ദൃഢമായത് കാഠിന്യം വർദ്ധിക്കുന്നതിന് അനുസൃതമായി സ്വാഭാവികമായും ഇൻ വൈവോ സാഹചര്യങ്ങളിൽ അവയുടെ വ്യാപ്തിയിലും ഗണ്യമായ വർദ്ധനവ് പ്രകടമായിരിക്കും എന്നതാണ് വസ്തുത മേല്പറഞ്ഞ ടിഷ്യൂകളിലെല്ലാം അഡൽറ്റ് മൂലകോശങ്ങൾ ദൃശ്യമാണ് എന്നാൽ ദൃഢതയുടെ ആവിർഭാവം ഇവയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്ന് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കുവാൻ ആദ്യ ശ്രമം നടത്തിയത് തന്നെ യൂ ലി വാങ് എന്ന ഗവേഷകനാണ് അതിനായി അദ്ദേഹം രണ്ട് വ്യത്യസ്ത സബ്സ്ട്രേറ്റുകൾ രൂപപ്പെടുത്തുകയുണ്ടായി ഒന്ന് മൃദുവും മറ്റേത് ദൃഢവുമായിരുന്നു ഇതിന് മുകളിലായി അദ്ദേഹം ഫൈബ്രോബ്ലാസ്റ് കോശങ്ങളും എപ്പിത്തീലിയൽ കോശങ്ങളും അണിനിരത്തുകയുണ്ടായി ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചാണ് മേല്പറഞ്ഞ സബ്സ്ട്രേറ്റുകളിൽ കോശങ്ങളുടെ വ്യാപനം സാധ്യമാകുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ആദ്യം ഉന്നയിച്ചത് മൃദുവായ പ്രതലത്തിൽ മേല്പറഞ്ഞ കോശങ്ങൾ ക്രമേണ വലുപ്പം കുറഞ്ഞ ഉരുണ്ട വൃത്താകൃതി കൈക്കൊള്ളുന്നതായാണ് അദ്ദേഹം കണ്ടെത്തിയത് പ്രസ്തുത സാഹചര്യത്തിൽ അവയുടെ വ്യാപ്തി താരതമ്യേന ചുരുങ്ങിയതായിരിക്കും എന്നാൽ അതെ കോശങ്ങൾ സുദൃഢമായ മെട്രിക്സിൽ ക്രമേണ ദൈർഘ്യമേറിയ ആകൃതിയിലാണ് നിലകൊള്ളുന്നത് ഈ കാണുന്നത് കൂടുതൽ ഉരുണ്ട വൃത്താകൃതിയിലുള്ള ഫീനോടൈപ്പ് ആണ് എന്നാൽ ക്രമേണ ദൃഢമായ പ്രതലങ്ങളിൽ കോശങ്ങൾ താരതമ്യേന സുദീർഘമായ ഫിനോടൈപ്പാണ് കാഴ്ചവെക്കുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ ദൃഢതയേറിയ പ്രതലങ്ങൾ കോശങ്ങളുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്ന പ്രേരകശക്തിയായി പ്രവൃത്തിക്കും എന്നതാണ് വസ്തുത ഇത്തരം പ്രതലങ്ങളിൽ കോശങ്ങളുടെ വ്യാപനം വർദ്ധിക്കുന്നതിന് അനുസൃതമായി അവയുടെ ഫോക്കൽ എഡ്ഹെഷനുകളുടെ വലുപ്പത്തിലും FA സിഗ്നലിങിന്റെ നിരക്കിലും പ്രകടമായ വർദ്ധനവ് ദൃശ്യമാകും എന്നതാണ് വസ്തുത സുദൃഢമായ പ്രതലങ്ങളിൽ FAK അഥവാ പാക്സിലിൻ എന്നീ ഇന്റെഗ്രിൻ സിഗ്നലിങ് രാസതന്മാത്രകളുടെ ഫോസ്ഫോറിലേഷൻ അല്പം വർദ്ധിത നിരക്കിൽ സാധ്യമാകും എന്ന പ്രത്യേകതയുണ്ട് മേല്പറഞ്ഞ രാസതന്മാത്രകളുടെ എക്സ്പ്രഷൻ നിയന്ത്രിക്കുന്നതിൽ ഇത്തരം കടുപ്പമേറിയ പ്രതലങ്ങൾക്ക് പ്രത്യക്ഷമായ സ്വാധീനമുണ്ടെന്ന് സാരം പ്രതലത്തിന്റെ ദൃഢത കോശങ്ങളുടെ വ്യാപനത്തിന് മേൽ ചെലുത്തുന്ന പ്രഭാവം ആധാരമാക്കിയുള്ള ആദ്യ പഠനങ്ങളിലൊന്നായിരുന്നു 1997 ൽ PNAS ൽ പ്രസിദ്ധീകരിച്ച ഈ പ്രബന്ധം പിന്നീട് ധാരാളം പഠനങ്ങൾ ഈ മേഖല കേന്ദ്രീകൃതമായി നടന്നിട്ടുണ്ട് എന്നാൽ മറ്റിനം കോശങ്ങൾ മേല്പറഞ്ഞ സാഹചര്യത്തിൽ സ്ഥാപിതമായാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യം ഇവിടെ യാന്ത്രികമായി ഉയർന്നുവരുന്നുണ്ട് ഏതാണ്ട് 5 മുതൽ 6 മണിക്കൂർ വരെ എന്ന നിരക്കിൽ കോശങ്ങളുടെ വ്യാപനം പ്രകടമാകുന്ന ഒരു പ്രതലത്തിൽ അതിനേക്കാൾ ഏറെ ദൈർഘ്യമേറിയ സ്ഥിതിവിശേഷങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന ചോദ്യം ഇവിടെ തീർത്തും പ്രസക്തമാണ് ഇതിനായി പേശീകോശങ്ങളുടെ ഡിഫറെൻസിയേഷനെ സംബന്ധിക്കുന്ന ഒരു പഠനം തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം പേശി കോശങ്ങളിൽ പ്രത്യേകിച്ച് C2C12 എന്ന സ്കെലിറ്റൽ പേശീകോശങ്ങൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവയിലെ വ്യക്തിഗത കോശങ്ങൾ പതിയെ ഒത്തുചേരുകയും ഒടുവിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കോശങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു ഇവിടെ നീലനിറത്തിൽ കാണപ്പെടുന്നവ ന്യൂക്ലിയസാണ് ഇതാണ് മേല്പറഞ്ഞ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഘടന ഇവ പിന്നീട് ഡിഫറെൻഷിയേറ്റ് ചെയ്ത് ബാൻഡഡ് ഘടനയുള്ള മയോട്യൂബുകളായി രൂപാന്തരപ്പെടുന്നു എന്നതാണ് വസ്തുത മേല്പറഞ്ഞ ബാൻഡഡ് വിന്യാസത്തിനെ സ്ട്രയേഷൻസ് എന്നാണ് നാം അഭിസംബോധന ചെയ്യുന്നത് ഡെന്നിസ് ഡിഷറിന്റെ സാരഥ്യത്തിലാണ് ഇത് കണ്ടെത്തിയത് മേല്പറഞ്ഞ പഠനം പ്രകാരം മൃദുലവും ദൃഢതയേറിയതുമായ വ്യത്യസ്ത പ്രതലങ്ങൾ ഈ കാണുന്ന ജെല്ലുകളിൽ സ്ഥാപിച്ച് ഐലൻഡുകളുടെ പാറ്റേൺ ഗവേഷകർ രൂപകൽപ്പന ചെയ്യുകയുണ്ടായി ശേഷം ECM കൊണ്ട് ലേപനം ചെയ്ത ഐലൻഡുകളെ ഈ കാണുന്ന പോളിഅക്രിലമൈഡ് ജെല്ലിൽ അണിനിരത്തുകയാണ് അവർ ചെയ്തത് സ്ട്രയേഷനുകളെ Y ആക്സിസിൽ രേഖപ്പെടുത്തി ദൃഢതയുടെ പ്രവർത്തനമായി ഗണിക്കുമ്പോൾ പ്രാരംഭ ടൈം പോയിന്റ് അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ ഏകദേശം രണ്ടാഴ്ച കൊണ്ട് തന്നെ 12 kPa എന്ന നിരക്കിൽ ദൃഢത രേഖപ്പെടുത്തുന്ന ഒരു പീക്ക് ദൃശ്യമാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും സമയം കടന്ന് പോകുംതോറും അവയുടെ ഡിഫറെൻസിയേഷൻ പ്രൊഫൈലിൽ ക്രമാധീതമായ വർദ്ധനവ് പ്രകടമായെങ്കിലും പീക്കിന്റെ സ്ഥാനം ഗണ്യമായ മാറ്റങ്ങളൊന്നും കൂടാതെ തത്സ്ഥിതിയിൽ തന്നെ തുടർന്നു എന്നതാണ് വസ്തുത കോശങ്ങൾ ഒപ്റ്റിമൽ ഡിഫറെൻസിയേഷൻ കാഴ്ചവെക്കുന്ന സോൺ ആണിത് മേല്പറഞ്ഞ മികച്ച നിരക്കിലുള്ള ഡിഫറെൻസിയേഷൻ 12kPa പരിധിയിലുള്ള ജെല്ലിലാണ് പ്രബലമായി ദൃശ്യമാകുന്നത് എന്ത് കൊണ്ടാണ് ഇത്തരം മെട്രിക്സുകളിൽ കാണപ്പെടുന്ന കോശങ്ങളിൽ വർദ്ധിത നിരക്കിൽ സ്ട്രയേഷനുകളും പുനഃസംഘടനയും പ്രകടമാകുന്നത് എന്ന ചോദ്യം തീർത്തും പ്രസക്തമാണ് പേശികോശങ്ങൾ വിച്ഛേദിച്ച് അവയുടെ ദൃഢത അളന്ന് തിട്ടപ്പെടുത്തുകയാണ് ഗവേഷകർ പ്രധാനമായും ചെയ്യുന്നത് ജെല്ലിൽ അധിക തോതിൽ സ്ട്രയേഷനുകൾ കാണപ്പെടുന്ന സോണിലെ പേശികോശങ്ങളിലാണ് ദൃഢത ഗണ്യമായി ദൃശ്യമാകുന്നത് പേശിക്ക് തുല്യമായ പരിതസ്ഥിതികളിൽ പേശീകോശങ്ങൾ മികച്ച രീതിയിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യും എന്ന സൂചനയാണ് മേല്പറഞ്ഞ പഠനം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കൂടാതെ വേറിട്ട ചില പരീക്ഷണങ്ങളും ഗവേഷകർ നടത്തുകയുണ്ടായി മേല്പറഞ്ഞ പരീക്ഷണത്തിന്റെ ഭാഗമായി താഴത്തെ പാളിയിൽ മയോട്യൂബുകളും അതിന് മുകളിലായി കോശങ്ങളുടെ മറ്റൊരു പാളിയും നാം നിരത്തുകയാണ് താഴത്തെ പാളിയിൽ കാണപ്പെടുന്ന മയോട്യൂബുകളാണ് നമ്മുടെ ആദ്യത്തെ മയോട്യൂബ് ലെയർ ഗ്ലാസ്സിന്റെ സുതാര്യമായ ഒരു പ്രതലത്തിലാണ് മേല്പറഞ്ഞ മയോട്യൂബുകൾ നാം അണിനിരത്തുന്നത് ഇതിലൂടെ നിയതമായ ആകൃതിയിലുള്ള മയോട്യൂബുകൾ നമുക്ക് ലഭ്യമാകും എന്നതാണ് വസ്തുത പ്രാരംഭദശയിൽ മേല്പറഞ്ഞ ഗ്ലാസ്സിന്റെ പ്രതലത്തിൽ C2C12 കോശങ്ങൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ വിസ്സമ്മതിച്ചിരിന്നു എന്നാൽ കോശങ്ങളുടെ രണ്ടാമത്തെ പാളി ഇവയ്ക്ക് മേൽ നിരത്തിയപ്പോൾ അതിന് മുകളിലായി പ്രസ്തുത മാതൃകയിലുള്ള സ്പഷ്ടമായ സ്ട്രയേഷനുകൾ ദൃശ്യമാകുകയുണ്ടായി എന്നതാണ് വസ്തുത ഈ കാണുന്നതാണ് ഞാൻ സൂചിപ്പിച്ച പേശീകോശങ്ങൾ രണ്ടാമത്തെ കോശങ്ങളുടെ പാളിയെ പേശികളുടെ പരിതസ്ഥിതിയായി ഗണിച്ച് അതിന് മുകളിലായാണ് ഇവ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നത് ശേഷം ഫൈബ്രോബ്ലാസ്റ്റ് കോശങ്ങൾ താഴെത്തട്ടിൽ നിരത്തി മേല്പറഞ്ഞ പരീക്ഷണം ഒരിക്കൽ കൂടി ആവർത്തിച്ചപ്പോൾ രണ്ടാമത്തെ പാളിയിൽ യാതൊരു വിധത്തിലുള്ള സ്ട്രയേഷനുകളും ദൃശ്യമായില്ല എന്നതാണ് വസ്തുത മേല്പറഞ്ഞ ഫൈബ്രോബ്ലാസ്റ്റ് കോശങ്ങൾ ഏകദേശം 2 5 kPa മാത്രം ദൃഢതയുള്ളവയാണ് എന്നാൽ പേശീകോശങ്ങളാകട്ടെ ഏതാണ്ട് 10 15 kPa നിരക്കിൽ അധിക ദൃഢതയുള്ളവയാണ് പേശീകോശങ്ങൾ സമാനമായ പരിതസ്ഥിതിയിൽ മാത്രം മികച്ച രീതിയിൽ ഡിഫറെൻസിയേഷൻ കാഴ്ചവെക്കുന്നവയാണ് എന്ന സൂചനയാണ് മേല്പറഞ്ഞ പഠനവും സ്ഥിതീകരിക്കുന്നത് സമാനമായ പരിതസ്ഥിതികളിൽ വ്യവസ്ഥാപിതമാകുമ്പോൾ ഒട്ടുമിക്ക പേശീകോശങ്ങളും പ്രവർത്തനനിരതമായ പേശീകോശങ്ങളെ പോലെയാണ് പെരുമാറുന്നത് എന്ന നിരീക്ഷണത്തെ സാധൂകരിക്കുന്ന സുപ്രധാന പഠനങ്ങളാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തത് ഹെലൻ ബ്ലോ എന്ന ഗവേഷക നടത്തിയ പരീക്ഷണങ്ങൾ ആധാരമാക്കിയാണ് നാം ഇവിടെ ചർച്ച തുടങ്ങിയത് സ്കെലിറ്റൽ മസിൽ കോശങ്ങളെ PA ജെല്ലിന് മുകളിലായി കണ്ടീഷൻ ചെയ്യുകയാണ് അവർ ചെയ്തത് പേശീകോശങ്ങളുടെ ദൃഢത അനുകരിക്കാൻ ഇവയ്ക്ക് കെല്പ്പുണ്ട് എന്നതാണ് വസ്തുത ശേഷം പ്രസ്തുത കോശങ്ങൾ ഇൻ വൈവോയായി ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അവ മികച്ച രീതിയിൽ എൻഗ്രാഫ്റ്റ്മെന്റ് കാഴ്ചവെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നാം ചർച്ച ചെയ്ത കോശങ്ങൾക്കെല്ലാം ചില പ്രത്യേക പരിതസ്ഥിതികളോട് മുൻഗണനയുണ്ട് എന്ന സൂചനയാണ് മേല്പറഞ്ഞ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ മൂലകോശങ്ങളെ കുറിച്ച് ഏതാനും ചില ചോദ്യങ്ങൾ ഉയർന്ന് വരുന്നുണ്ട് മൂലകോശങ്ങളെ വ്യത്യസ്ത ഇലാസ്റ്റിസിറ്റികളുള്ള മെട്രിക്സുകളിൽ അണിനിരത്തുമ്പോൾ അവ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് എന്ന ചോദ്യം ഇവിടെ തീർത്തും പ്രസക്തമാണ് ഡെന്നിസ് ഡിഷർ എന്ന ഗവേഷകൻ നയിക്കുന്ന പഠനസംഘം ഇതിന്റെ ഭാഗമായി PA ജെല്ലുകൾ ഉപയോഗപ്പെടുത്തി ഏതാനും ചില പഠനങ്ങൾ നടത്തുകയുണ്ടായി ദൃഢതയുടെ പ്രഭാവം ഹ്യൂമൻ മീസെൻകൈമൽ മൂലകോശങ്ങളുടെ ഗതിക്കുമേൽ ചെലുത്തുന്ന സ്വാധീനമെന്താണ് എന്ന ചോദ്യം അദ്ദേഹം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി സെൽ 2006 ൽ പ്രസിദ്ധീകരിച്ച ഈ സുപ്രധാന പ്രബന്ധം മേല്പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം നല്കുന്ന ഒന്നാണ് ഇത് നിങ്ങളുടെ റീഡിങ് അസൈൻമെന്റിന്റെ ഭാഗമായി കണക്കാക്കി പഠിക്കാനുള്ളതാണ് നിങ്ങളുടെ വിലയേറിയ